ഈ അവസരത്തിൽ പ്രധാനമായി നമുക്ക് ഇൻറർനെറ്റ് ഓഫ് തിങ്ങ്സ് ഐ ടി എന്താണെന്ന് മനസ്സിലാക്കാം ഇതുവരെ വരെ ഉള്ളതിൽ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഏറ്റവും നല്ല നിർവചനം ഐ ടി യു വിൽ നിന്നാണ് ആ നിർവചനം പറയുന്നത് ഐ ഒ ടി എന്നത് ഇൻഫോർമേഷൻ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ആഗോള അടിസ്ഥാനസൌകര്യം ആണ് നമ്മൾ ജീവിക്കുന്നത് ഒരു വിവര സമൂഹത്തിലാണ് ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് വിവരങ്ങളുടെ സൃഷ്ടി വിവരങ്ങളുടെ കൈകാര്യംഅതിൻറെ ലഭ്യത എന്നിവയാണ് ഈ നിർവചനം പറയുന്നത് നിലവിലുള്ളതും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ പരസ്പരം പ്രവർത്തിക്കുന്ന വിവരങ്ങളും ആശയവിനിമയ സാങ്കേതികവിദ്യയും അടിസ്ഥാനമാക്കി ഭൌതികവും വിർച്വലും ആയ കാര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് വിപുലമായ സേവനങ്ങൾ പ്രാപ്തമാക്കുന്ന ആഗോള അടിസ്ഥാന സൌകര്യം ആണ് ഐ ഓ ടി ഇതൊരു സംക്ഷിപ്തമായ നല്ല നിർവചനമാണ് ഇത് എന്താണ് പറയുന്നതെന്ന് നോക്കൂ ഭൌതിക വസ്തുക്കളും സാങ്കല്പിക വസ്തുക്കളും വെർച്ചൽ എന്നാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് വെർച്ചൽ എന്നാൽ തൊടാൻ ആകാത്തത് അതോ കാണാനാകാത്ത ആയ വസ്തുക്കളാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പേപ്പറിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും അത് കാണാൻ കഴിയുന്ന ഭൌതികമായ ഒരു വസ്തുവാണ് എന്നാൽ ഈ പേപ്പർ ഈ ബുക്ക് എന്നിവ ഭൌതികം അല്ല വെർച്വൽ ആണ് നിലവിലുള്ളതും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ പരസ്പരം പ്രവർത്തിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഭൌതികവും വിർച്വലും ആയ കാര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതായി ഇത് പറയുന്നു ഇപ്പോൾ ഉള്ളതും ഒപ്പം കൊണ്ടുവരാൻ സാധ്യതയുള്ള പുതിയ സാങ്കേതികവിദ്യകളെയും പറ്റിയാണ് ഇത് പറയുന്നത് അവ വികസിച്ചുകൊണ്ടിരിക്കുന്ന വിവര ആശയവിനിമയ സാങ്കേതികവിദ്യയാണ് അതിനാൽ അതാണ് ഇവിടെ പ്രധാനം ഒരു ഐഒടി എന്താണെന്നതിന്റെ നിർവചനം അതാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം വസ്തുക്കളാണ് നിങ്ങൾക്ക് ചുറ്റും കാണുന്നവ എല്ലാം യഥാർത്ഥത്തിൽ വസ്തുക്കളാണ് നിങ്ങൾക്ക് ഈ കസേരയെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിനെക്കുറിച്ചോ ലാപ്ടോപ്പിനെക്കുറിച്ചോ സംസാരിക്കാം അത് മറ്റൊരു വസ്തുവാണ് നിങ്ങൾക്ക് ഈ കസേര കമ്പ്യൂട്ടറുമായിആയി സംസാരിക്കണമെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ സാധ്യമാക്കും ഇതിനെക്കുറിച്ച് തമാശയുള്ളത് നോക്കൂകൃത്യമായി എന്താണ് ഞാൻ പറഞ്ഞതെന്ന് നോക്കൂ ഒരു കസേരയും ലാപ്ടോപ്പും ഇവ 2 വൈവിധ്യമാർന്ന വസ്തുക്കളാണെന്ന് ഞാൻ പറഞ്ഞു അവയെ നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഒരു ലളിതമായ ആശയം നോക്കാം ഒരു വ്യക്തി ഈ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ് ഓൺ ആകുന്നു ഇത് ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിനോട് അറിയിക്കാൻ കഴിയുന്ന ഒരു കാര്യം ആണ് മനുഷ്യ ഇടപെടലില്ലാതെ 2 ഭൌതിക വസ്തുക്കൾ സംസാരിക്കുന്നു ഇത് വളരെ ലളിതമായ ഒരു ഐഒടി സിസ്റ്റം ആണ് ഒരാൾ ഇരിക്കുമ്പോൾ മാത്രമേ ലാപ്ടോപ്പ് ഓൺ ആകുന്നുള്ളൂ അതിനായി ഒരു സെൻസർ സിസ്റ്റത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഒരാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അത് ലാപ്ടോപ്പിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയും ലാപ്ടോപ്പ് നോട് ഓൺ ആകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും അങ്ങനെ രണ്ട് വസ്തുക്കൾ തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുകയും ഉപകാരപ്രദമായ അറിവ് ഇവ പങ്കുവെക്കുകയും ചെയ്യുന്നു ഇത് മനുഷ്യരാശിയുടെ ഉന്നമനത്തിനായി ആയി ലോകത്തിൻറെ ഉന്നമനത്തിനായി പല കാര്യങ്ങളുടെയും മെച്ചപ്പെടുത്തലിനായി ഉപയോഗിക്കാം ഇതാണ് ആണ് ഐ ടി യു തന്ന നിർവചനത്തിൻറെ അർത്ഥം വെർച്വൽ ഒബ്ജക്റ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനും നിങ്ങൾക്ക് ശ്രമിക്കാം ഉദാഹരണത്തിന് വ്യക്തി ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ലാപ്ടോപ്പ് സ്വിച്ച് ഓൺ ആവുകയും ഇ ബുക്ക് തുറക്കുകയും ചെയ്യുന്നു ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു ഭൌതിക വസ്തുവായ ലാപ്ടോപ്പ് യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത ഒരു വെർച്വൽ പുസ്തകം പ്രവർത്തനക്ഷമമാക്കുന്നു ഇവിടെ മനുഷ്യൻ ലാപ്ടോപ്പിലൂടെ ഒരു വെർച്വൽ വസ്തുവിലേക്ക് പ്രവേശിക്കുന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ ഐടിയു നിർവചിക്കുന്ന ഐ ഓ ടിയുടെ മാതൃകയിൽ ഉൾപ്പെടുന്നു ഒരു ഐഒടി സിസ്റ്റത്തിന്റെ നിർവ്വചനം എന്താണെന്ന് ഉള്ള ഒരു നല്ല വിശദീകരണം ആണിതെന്ന് കരുതുന്നു ഇനി നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രധാന കാര്യങ്ങളും ചെയ്യുന്ന ഒരു നല്ല ഐഒടി സിസ്റ്റം എങ്ങനെ രൂപപ്പെടുത്താം എന്ന് പ്രായോഗികതലത്തിൽ നോക്കാം ഈ ചിത്രം നോക്കുക ഇതിൽ ഐഒടി ഡിവൈസുകൾ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഡിവൈസുകൾ ഇതിൽ ഉള്ളതായി സങ്കൽപ്പിക്കാം അവ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതോ ഊർജം ഉൽപാദിപ്പിക്കുന്നതോ അങ്ങനെ രണ്ടു തരത്തിലും ആകാം ഈ ഐഒടി ഉപകരണങ്ങളെല്ലാം അടിസ്ഥാനപരമായി സെൻസറുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നുഅത് ഇവിടെയുള്ള ചുറ്റുപാടുകളിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കുന്നു അടിസ്ഥാനപരമായി ഈ സെൻസിംഗ് പരിതസ്ഥിതികളെല്ലാം സ്വഭാവമനുസരിച്ച് അനലോഗ് ആണ് എന്നാൽ ഇന്ന് അനലോഗ് വിവരങ്ങൾ നേരിട്ട് പ്രോസസ് ചെയ്തു ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റി ഐഒടി ഡിവൈസുകളിലേക്ക് കൊടുക്കാൻ സാധിക്കും അടിസ്ഥാനപരമായി നിങ്ങൾ അനലോഗ് ഡാറ്റ ഡിജിറ്റൽ ഡാറ്റയിലേക്ക് മാറ്റി ഈ ഉപകരണങ്ങളിൽ നേരിട്ട് ലഭ്യമാക്കുന്നു ഇത് ചുറ്റുപാടുമായി സംവേദിക്കുന്നു അവയെല്ലാം ഈ ഡാറ്റ ഗേറ്റ്വേ ഉപകരണത്തിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഉപകരണവും ഈ ഗേറ്റ്വേ ഉപകരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്

ഒരു ഐഒടി ഉപകരണം ഈ ചെറിയ പിസിബിയുടെ വലുപ്പം കവിയാൻ ഇടയില്ലെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകും ഈ പിസിബിക്ക് ഒരു ചിപ്പ് ചില കണക്റ്ററുകൾ കൂടാതെ ഒരുതരം സ്റ്റോറേജുമുണ്ട് സാധാരണയായി 5 സെന്റിമീറ്ററോളം നീളവും ഏകദേശം 2 അല്ലെങ്കിൽ രണ്ടര സെന്റിമീറ്റർ വീതിയും ആയിരിക്കും ഇതിന്റെ വലിപ്പം ഒരു ഐഒടിയുടെ പരമാവധി വലിപ്പം ഇതാണ് പക്ഷേ നിങ്ങൾ ഗേറ്റ്വേ ഉപകരണം നോക്കുകയാണെങ്കിൽ അവ അനുപാതത്തിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ ഈ ഗേറ്റ്വേ മാറ്റി ഗേറ്റ്വേ അല്പം വലുതായി കാണിക്കാം നിങ്ങൾ ഒരു ഐഒടി ഉപകരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലുപ്പത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം ഷെൽഫ് ബോർഡുകളിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്ന ഇവയിൽ പലതും കണ്ടിരിക്കണം ഗേറ്റ്വേഉപകരണത്തിന്റെ മികച്ച ഉദാഹരണങ്ങൾ ആണ് റാസപ്ബറി പൈ ബീഗിൾബോർഡ് ഓഡ്രോയിഡ് ബീഗിൾബോൺ ഇന്റലിൽ നിന്നുള്ള എഡിസൺ അധിഷ്ഠിത ബോർഡ് ഇന്റലിൽ നിന്നുള്ള ഗലീലിയോഅധിഷ്ഠിത ബോർഡ് എന്നിവ അതിനാൽ നിങ്ങൾക്ക് ഈ ബോർഡുകളുടെ ഒരു കൂട്ടം ഉണ്ട് ആർഡുനോ അടിസ്ഥാനമാക്കിയുള്ള ബോർഡുകൾ വളരെ പ്രധാനപ്പെട്ട ഘടകം ആണ് ലഭ്യമായ പ്രധാനപ്പെട്ട ജനപ്രിയമായ ഹാർഡ്വെയർ ആണ് അത് 100 മെഗാഹെർട്സ് ൽ ആം കോർട്ടെക്സ് ഉപയോഗിക്കുന്ന അർഡുനോ എംബെഡ് പ്രോസസ്സറുകൾ ഇതിനെ എംബെഡ് ബോർഡുകൾ എന്നും വിളിക്കുന്നു അത് ഇന്റൽ എഡിസൺ ബോർഡ് ആകാം അത് ഇന്റൽ ഗലീലിയോ ബോർഡ് ആകാം അത് ടീസ ബീഗിൾബോർഡ് ബീഗിൾബോൺ ആകാംഅല്ലെങ്കിൽ റാസപ്ബറി പൈആവാം അതിൽ അല്പം വലുപ്പമുള്ളതായി കാണപ്പെടുന്ന ഏതൊരു ഉപകരണത്തിനും യഥാർത്ഥത്തിൽ ഒരു ഗേറ്റ്വേ ഉപകരണം ആകാം അത് എന്താണ് പ്രവർത്തിപ്പിക്കേണ്ടത് ഇത് ഓപ്പൺ സോഴ്സ് ഉബുണ്ടു പോലെ ഉള്ള എംബഡഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കണം ക്ഷമിക്കണം ഇത് വീണ്ടും എഴുതട്ടെ ഉബുണ്ടു സാധാരണയായി ഇതിന് ഉബുണ്ടു പോലുള്ള എംബഡഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ കഴിയും ഉബുണ്ടു അടിസ്ഥാനപരമായി ലിനക്സ് വിതരണമാണ് നമുക്ക് ആവശ്യമായ എല്ലാ പാക്കേജുകളും അത് പ്രവർത്തിപ്പിക്കുകയും നമ്മളെ കണക്റ്റുചെയ്യാൻ അനുവദിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ എന്താണ് മാതൃക ഐഒടി ഉപകരണങ്ങൾ തുടർച്ചയായി ഡാറ്റ ഗേറ്റ്വേ ഉപകരണത്തിലേയ്ക്ക് അയയ്ക്കുന്നു എന്തിനാണ് അയക്കുന്നത് എന്തിനാണ് ഐഒടി ഉപകരണങ്ങൾ ഗേറ്റ്വേ ഉപകരണത്തിലേയ്ക്ക് ഡാറ്റ അയക്കുന്നത് എന്ന് ശരിക്കും അറിയണമെങ്കിൽ ഒരു ഐഒടി സിസ്റ്റത്തിൽ ചില അവശ്യ ബ്ലോക്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം ഞാൻ അവ എഴുതാം ബ്ലോക്കുകളിലൊന്ന് അടിസ്ഥാനപരമായി ഈ ഐഒടി ഉപകരണങ്ങൾ ആണ് 1 മുതൽ N വരെ ഉപകരണങ്ങൾ ഉണ്ട് ഒരു ഗേറ്റ്വേ ഉണ്ട് ഡാറ്റ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ദിശ വഴി ഗേറ്റ്വേയിലേക്ക് പോകുന്നു നമുക്ക് ഇവിടെ ഒരു പുതിയ പദം അവതരിപ്പിക്കാം നമ്മൾ ഈ ഗേറ്റ്വേയേ എന്ത് വിളിക്കും അത് ടിഐ ബീഗിൾബോർഡ് ബീഗിൾബോൺ റാസ്ബെറി പൈഅല്ലെങ്കിൽ ഇന്റൽ എഡിസൺ ഗലീലിയോ എന്നിവയുടെ വലിപ്പം പോലെ ആയിരിക്കില്ലയഥാർത്ഥത്തിൽ കുറച്ചുകൂടി വലുതായിരിക്കും ഇത് ഒരു സാധാരണ ഐപി റൂട്ടറിന്റെവലിപ്പം ആയിരിക്കും അതിനാൽ ഇത്തരത്തിലുള്ള ഉപകരണത്തിന് ഐഒടിയുടെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ പേരുണ്ട് അത്തരം ഉപകരണങ്ങളേ യഥാർത്ഥത്തിൽ എഡ്ജ് ഉപകരണങ്ങൾ എന്ന് വിളിക്കുന്നു ഗേറ്റ്വേകൾക്ക് ഒരു എഡ്ജ് ഉപകരണത്തിലേക്ക് കണക്റ്റുചെയ്യാനായേക്കാം അതിനർത്ഥം അത് സാധാരണ ഗേറ്റ്വേയേക്കാൾ വലുതാണ് വലുത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിന്റെ ഭൌതിക രൂപത്തിന്റെ മാത്രമല്ല ഇതിന് വളരെയധികം ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ കഴിയും ഈ ഗേറ്റ്വേ ഉപകരണത്തിന് ഐഒടി ഉപകരണങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന ഡാറ്റയുടെ പെട്ടെന്നുള്ള വർദ്ധനവ് വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ കഴിയും ഈ ഗേറ്റ്വേ കണക്റ്റുചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട് നേരിട്ട് ഇൻറർനെറ്റിലേക്ക് പോകുക അല്ലെങ്കിൽ ഗേറ്റ്വേ മറ്റൊരു എഡ്ജ് ഉപകരണത്തിലൂടെ ഇൻറർനെറ്റിലേക്ക് പോകുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ഇന്റർനെറ്റിലേക്ക് കണക്റ്റുചെയ്യുന്നു ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് ഇത് വീണ്ടും വരച്ച് ഇത് കണക്റ്റുചെയ്യാനുള്ള സാധ്യതകൾ കാണിക്കാം കണക്റ്റുചെയ്യാനുള്ള സാധ്യത ഇതാണ് ഇന്റർനെറ്റ് ഇത് കണക്റ്റുചെയ്യാനുള്ള സാധ്യത ആണ് ഇത് മറ്റൊന്നാണ് ഇതിനെ പ്രധാനമായും നമ്മൾ ഇന്റർനെറ്റ് എന്ന് വിളിക്കുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു എഡ്ജ് ഉപകരണം ഉണ്ടായിരിക്കണം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗേറ്റ്വേ ഉപകരണം ഉണ്ടായിരിക്കണം കുറച്ച് കഴിഞ്ഞ് ആ വിശദാംശങ്ങളിലേക്ക് വരാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നേരിട്ട് ചെയ്യാനാകുമെന്ന് കരുതുക അല്ലെങ്കിൽ ഒരു എഡ്ജ് ഉപകരണം വഴി ചെയ്യാനാകും ഈ 2 ഓപ്ഷനുകൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളെ കുറച്ചുകൂടി ചിന്തിപിക്കാൻ ഇന്നത്തെ ലോകത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം നിങ്ങൾ ഈ ചിത്രം നോക്കൂ ഇവിടെ ഒരു വലിയ ഡാറ്റ ഉൽപാദിപ്പിക്കുന്നു അത് ഒരു അനലോഗ് സെൻസറിൽ നിന്ന് ഓരോ സെക്കൻഡിലും വരുന്നത് 16 ബിറ്റ്സ് ഡാറ്റയാണെന്ന് കരുതുക അത്തരം N ഉപകരണങ്ങളുണ്ട് അതിനാൽ ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് n തവണ 16 ബിറ്റുകൾ വരുന്നു N × 16 ബിറ്റുകൾ സെക്കൻഡ് 1 മിനിറ്റ് 1 മണിക്കൂർ 1 ദിവസം എന്നിവയിൽ നിങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റയുടെ അളവ് സങ്കൽപ്പിക്കുക എല്ലാ ഡാറ്റയും ഒന്നുകിൽ ഈ ഗേറ്റ്വേ ഉപകരണത്തിലൂടെ കടന്നുപോകുകയോ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ കടന്നുപോകുകയോ ചെയ്യും നിങ്ങൾ ഈ ഗേറ്റ്വേ പൂർണ്ണമായും ഉപയോഗിക്കാനുളള ലളിതമായ കാരണം വാസ്തവത്തിൽ ഈ ഐഒടി ഉപകരണങ്ങൾ ടിസിപി ഐപിയായ ഇൻറർനെറ്റ് പ്രോട്ടോക്കോളിനോടല്ല സംസാരിക്കരുത് അത് ചില പ്രോട്ടോക്കോൾ ചില ലളിതമായ ഉൾച്ചേർത്ത കോഡ് അങ്ങനെ എന്തെങ്കിലും ഗേറ്റ്വേയോട് സംസാരിക്കുന്നു ഇപ്പോൾ ഗേറ്റ്വേ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എനിക്ക് നന്നായി മനസ്സിലാകുന്ന ഒരു പ്രോട്ടോക്കോളിൽ ആളുകൾ എനിക്ക് ഡാറ്റ നൽകി പക്ഷെ എനിക്ക് ഇത് ഇൻറർനെറ്റിലേക്കുകൊടുക്കണം എങ്കിൽ ഞാൻ ഈ ഡാറ്റയെ യഥാർത്ഥ ഇൻറർനെറ്റ് പ്രോട്ടോക്കോൾ സ്റ്റാൻഡേർഡിലേക്ക് പരിവർത്തനം ചെയ്യണം അത് ടിസിപി ഐപിയിലാണ് അതിനാൽഐഒടി ഉപകരണങ്ങൾ മെമ്മറി നിയന്ത്രണം അല്ലെങ്കിൽ പ്രോസസ്സിംഗ് നിയന്ത്രണം അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും നിയന്ത്രിത ഉപകരണങ്ങളാണ് അവയ്ക്ക് സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ സംസാരിക്കാൻ കഴിയുന്നില്ല ഇത് ചെയ്യാൻ ഗേറ്റ്വേയിൽ സമ്മർദ്ദം ചെലുത്തുന്നു ഗേറ്റ്വേ ഈ ഐഒടി ഉപകരണങ്ങളിൽ നിന്ന് ഡാറ്റ എടുത്ത് ഇന്റർനെറ്റ് ലാനിന് നന്നായി മനസിലാകുന്ന ഒരു ഗേറ്റ്വേ വിവർത്തന പ്രോട്ടോക്കോൾഉപയോഗിച്ച് ഇൻറർനെറ്റിലേക്ക് കൊടുക്കുന്നു അതിനാൽ ഗേറ്റ്വേയ്ക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്ന വളരെ നല്ല ഒരു പ്രവർത്തനമാണിത് ഇപ്പോൾ ഗേറ്റ്വേ കുറച്ചുകൂടി മികച്ചതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഏത് തരത്തിലുള്ള ഡാറ്റയാണ് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് അറിയാനുള്ള ബുദ്ധി ഗേറ്റ്വേയിൽ ഉണ്ടെന്ന് കരുതുക വയലിൽ നിന്ന് വരുന്ന ഡാറ്റ പ്രധാനമായും ഒരു കാർഷിക മേഖലയിൽ നിന്നുള്ള ഡാറ്റdataതാപനില അന്തരീക്ഷ താപനില അത് മർദം ആകാം അത് മണ്ണിന്റെ ഈർപ്പം ആകാം ഒപ്പം ഏത് തരത്തിലുള്ള ഡാറ്റയാണ് സംവേദനം ചെയ്യുന്നതെന്ന് അതിന് യഥാർത്ഥത്തിൽ അറിയാം അതിനാൽ അത് തീരുമാനിക്കുന്നത് എന്താണ് ഇപ്പോൾ ഏത് തരത്തിലുള്ള ഡാറ്റയാണെന്ന് എനിക്ക് അറിയാം നിലവിലുള്ള ഡാറ്റയുടെ സംഗ്രഹം അനുസരിച്ച് ഡാറ്റയുടെ ശരാശരി കണക്കിലെടുത്ത് അല്ലെങ്കിൽ പരമാവധി മൂല്യം അല്ലെങ്കിൽ കുറഞ്ഞ മൂല്യം തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ശരാശരി എടുത്ത് ഈ ലിങ്കിലൂടെ ഡാറ്റ ഇന്റർനെറ്റിലേക്ക്കൈമാറുന്നു മിക്കപ്പോഴും നിങ്ങൾ വളരെയധികം പ്രോസസ്സിംഗ്നടത്തിയ ഡാറ്റയെക്കുറിച്ച് കൂടുതൽ സങ്കീർണ്ണമായ വിശകലനം ചെയ്യാം അതുകൊണ്ട് നേരിട്ട് ഇൻറർനെറ്റിലേക്ക് ഡാറ്റ നൽകുന്നതിന് ഗേറ്റ്വേ പലപ്പോഴും ഒരു നല്ല തിരഞ്ഞെടുപ്പ് ആയിരിക്കില്ല പകരം നിങ്ങൾ ഗേറ്റ്വേ ഉപകരണത്തോട് ഡാറ്റ ശേഖരിച് എഡ്ജ് ഉപകരണത്തിന് നൽകാൻ ആവശ്യപ്പെടുന്നു അതുവഴി എഡ്ജ് പ്രോസസ്സിംഗ് യഥാർത്ഥത്തിൽ തനിപ്പകർപ്പിനെ സഹായിക്കാം ഡാറ്റയുടെ തനിപ്പകർപ്പ് നീക്കംചെയ്യൽ അല്ലെങ്കിൽ ലളിതമായ പ്രവർത്തനങ്ങൾക് അപ്പുറം കൂടുതൽ സങ്കീർണ്ണമായ പ്രക്രിയ നടത്താനും ഇത് വളരെ പ്രധാനമാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഈ മോഡലിലേക്ക് വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഡാറ്റ നേരിട്ട് ഇൻറർനെറ്റിലേക്ക് കൈമാറുന്നത് ഉപയോഗപ്രദമാകുന്നത് ചിലപ്പോൾ ഇത് കുറച്ചുകൂടി ശക്തമായ എഡ്ജ് ഉപകരണത്തിലൂടെ കൈമാറുന്നതാകും ഉപയോഗപ്രദം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഐഒടിയുടെ ആദ്യ ഘടകം ആർക്കിടെക്ചർ ആണ് അടിസ്ഥാനപരമായി നമ്മൾ ഒരു എഡ്ജ് ഉപകരണത്തെക്കുറിച്ച് സംസാരിച്ചു രണ്ടാമത്തേത് എന്താണ് രണ്ടാമത്തേത് സങ്കീർണ്ണമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തേത് എഡ്ജ് ഉപകരണം ആണ് എഡ്ജ് ഉപകരണം അപ്ലോഡുചെയ്തുകഴിഞ്ഞാൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നു ഒപ്പംഈ ഉപകരണങ്ങളിൽ നിന്ന് നിരന്തരം പ്രവഹിക്കുന്ന ഡാറ്റയുടെ അളവ് കുറയ്ക്കുന്നു ഡാറ്റ പ്രവഹിക്കുന്ന മറ്റ് ഉപകരണങ്ങൾ ഇവിടെയുണ്ട്എങ്ങനെയെങ്കിലും ഡാറ്റ സംഗ്രഹിച്ച് അപ്ലോഡു ചെയ്യുന്നു അതിന്റെ അർത്ഥം എന്തെന്നാൽ അത് വളരെ ലളിതമായ കാര്യങ്ങളും ചെയ്തുചിലപ്പോൾ ഇത് ഒരു ഗേറ്റ് എഡ്ജ് ഉപകരണമാണെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യും എന്തായാലും ഈ ഡാറ്റയുടെ കൂടുതൽ പ്രോസസ്സിംഗ് ആവശ്യമാണ് അത് നമ്മളെ ഐഒടി ആർക്കിടെക്ചറിൻറെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു പ്രാദേശികമായോ അല്ലെങ്കിൽ ക്ലൌഡിലോ ഡാറ്റ സംഭരിക്കുക അത് ഒന്നുകിൽ പ്രാദേശിക സംഭരണം ആകാം അല്ലെങ്കിൽ അത് ക്ലൌഡ് സംഭരണം ആകാം അതിനാൽ ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന രണ്ടാമത്തെ ഘടകമാണ്ആർക്കിടെക്ചറിൻറെ ഭാഗം മൂന്നാമത്തേത് ഒരുപക്ഷേ നിങ്ങൾ ഡാറ്റ നിശ്ചലമാക്കിയാൽ ഡാറ്റ കൊടുക്കുക ഡാറ്റ സംഭരിച്ചുനിശ്ചലമായ ഡാറ്റയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡാറ്റ അനലിറ്റിക്സ് എന്ന് വിളിക്കുന്നതാണ് മറ്റൊരു പ്രധാന ബ്ലോക്ക് അതിനാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡാറ്റയെ നിങ്ങൾ വിശകലനം ചെയ്യുന്നു നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൃശ്യവൽക്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഡാറ്റയിലെ ഈ അനലിറ്റിക്സ് ഉപകാരപ്രദം ആണോ അതിനാൽ ഇത് നമ്മുടെ ആർക്കിടെക്ചറിൻറെ മൂന്നാമത്തെ ബ്ലോക്കാണ് ഇത് നാലാമത്തെ ബ്ലോക്ക് നിങ്ങൾ ഒരു ഐഒടിസിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും 1 2 3 4 എന്നിവയെക്കുറിച്ച് സംസാരിക്കും നിരവധി വ്യതിയാനങ്ങൾ നിലവിലുണ്ട് ഈ മുഴുവൻ സിസ്റ്റവും നോക്കാനുള്ള നിരവധി മാർഗങ്ങൾ നിലവിലുണ്ട് നിങ്ങൾക്ക് ക്ലൌഡ് സംഭരണത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് ലാൻ നുള്ളിൽ സിസ്റ്റത്തിനുള്ളിൽ പരിസ്ഥിതിക്കുള്ളിൽ ഉള്ള പ്രാദേശിക സംഭരണത്തെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കും ഏത് സാഹചര്യത്തിലും വിശകലനം നടത്തേണ്ടതുണ്ട് അതുവഴി സംഭരിച്ചിരിക്കുന്ന ഡാറ്റ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും അനലിറ്റിക്സ് എഞ്ചിനുകൾ വഴി ഡാറ്റ പ്രവർത്തിപ്പിക്കുന്നതിലൂടെ ഡാറ്റ വിശകലനം ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നു എല്ലാം ഈ ഡാറ്റ ദൃശ്യവൽക്കരിക്കാൻ ഉപയോഗപ്രദമായിരിക്കണം അതിനാൽ നിങ്ങൾ 1 2 3 4ഉം ഈ 4 ഉപകരണങ്ങളും ഒരു ഐഒടി സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ രൂപീകരിക്കുന്ന 4 വ്യത്യസ്ത ഉപകരണങ്ങൾ ആണെന്ന കാര്യം ഓർമ്മിക്കുക ഇപ്പോൾ നമ്മൾ ഓരോ ബ്ലോക്കുകളുടെയും വിശദാംശങ്ങളിലേയ്ക്ക് പ്രവേശിക്കണം നമ്മുടെ ചർച്ച വലിയ തോതിൽ ഈ ഐഒടിഉപകരണങ്ങളുടെ സൃഷ്ടി രൂപകൽപ്പന ഗേറ്റ്വേ ഉപകരണത്തിലേക്ക് ഡാറ്റ കൈമാറ്റം എങ്ങനെ നടത്താം എന്നിവ ആയിരിക്കും എങ്ങനെ സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റ വിശ്വസനീയമായി ശേഖരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ഗേറ്റ്വേ ഉപകരണങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു എന്നും ചർച്ച ചെയ്യാം ഇനി ഒരു ഐഒടി ഉപകരണത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം

വളരെയധികം നന്ദി